സ്വിംഗ് ലിമിറ്റ്സിൻറെ കണക്കുകൂട്ടൽ കാണിക്കാനായി ഒരു വ്യത്യസ്ത ബയാസിംഗ് വ്യവസ്ഥ അതായത് ഡ്രെയിൻ ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്ന കോമൺ സോഴ്സ് ആംപ്ലിഫയറിൻറെ സ്വിംഗ് ലിമിറ്റ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നതാണ് ഇനി ഡ്രെയിൻ ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്ന കോമൺ സോഴ്സ് ആംപ്ലിഫയർ ഇങ്ങനെയാണ് ഉള്ളത് ഇവിടെ ഇൻപുട്ട് സോഴ്സ് ട്രാൻസിസ്റ്ററിൻറെ ഗേറ്റും ആയി എസി കപ്പിൾഡ് ആണ് ഡ്രയിനിനെ ബയാസ് ചെയ്യുന്ന ഒരു കറണ്ട് സോഴ്സ് ഉണ്ട് ഒരു വലിയ റെസിസ്റ്റർ RG ഉപയോഗിച്ച് ഗേറ്റിന് ഒരു ഫീഡ്ബാക്ക് ഉണ്ട് തീർച്ചയായും ലോഡ് ഉണ്ടാകും ഇത് വ്യക്തമാക്കുന്നതിനായി സപ്ലൈ വോൾട്ടേജ് 15 വോൾട്ട്സ് ആണെന്ന് കരുതുക C1 C2 RG ഇവയെല്ലാം വളരെ വലുതാണ് വളരെ എന്നു പറയുമ്പോൾ വളരെ അധികം വലുതാണ് ഇതുപയോഗിച്ച് ചില അപ്രോക്സിമേഷൻസ് ചെയ്യാൻ സാധിക്കും RG ഓപ്പൺ സർക്യൂട്ട് പോലെയും C1 C2 ഷോർട്ട് സർക്യൂട്ട് പോലെയും ഇവിടെ പെരുമാറും ഇനി ഇത് 100 kΩ ആണെന്നും RG 20 MΩ ആണെന്നും കരുതുക ഈ പരിമിതി വളരെയെളുപ്പത്തിൽ തൃപ്തിപ്പെടുത്തുന്നതാണ് C1 C2 എന്നിവ ഇനി ഞാൻ നിർണയിക്കുന്നില്ല ഇത് മുൻപും നാം ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യുന്നതെങ്ങനെ എന്ന് നിങ്ങൾക്കറിയാം ലോഡ് റെസിസ്റ്റൻസ് 40 kΩ ആണെന്ന് കരുതുക ഇത് കൂടുതൽ താല്പര്യം ഉള്ളത് ആക്കാനും പിന്നീട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിന് സഹായകരമാകുവാനും വേണ്ടി 200 µA ഉള്ള ഈ കറൻറ് സോഴ്സിനെ ഒരു റെസിസ്റ്റർ കൊണ്ട് മാറ്റി വെക്കാം ഞാൻ മുൻപും പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കറൻറ് സോഴ്സിനു പകരം ബയാസിംഗിന് വേണ്ടി റെസിസ്റ്റർസ് ഉപയോഗിക്കാം പ്രത്യേകിച്ച് ഡിസ്ക്രീറ്റ് സർക്യൂട്ട്സിൻറെ കാര്യത്തിൽ ഏത് റസിസ്റ്റർ ആണ് നാം പകരം വെക്കേണ്ടത് ഇത് 200 µA കറൻറ് സോഴ്സ് ആണ് ഇതിന് കുറുകെ ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് നിങ്ങൾക്ക് അറിയാം 200 µA ഡ്രയിൻ കറൻറ് കാരണം ട്രാൻസിസ്റ്ററിൻറെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് മൂന്ന് വോൾട്ട്സ് ആണ് RG യിലേക്ക് കറൻറ് ഒഴുകാത്ത കാരണം ഡ്രയിൻ സോഴ്സ് വോൾട്ടേജ് കൂടി മൂന്ന് വോൾട്ട്സ് ആണ് അതിനാൽ ഈ പോയിൻറ് മൂന്ന് വോൾട്ട്സിൽ ആണ് സപ്ലൈ വോൾട്ടേജ് 15 വോൾട്ട്സ് ആണ് അതിനാൽ 200 µA നു കുറുകെ 12 വോൾട്ട്സ് ഉണ്ട് ഇതിനെ ഒരു റെസിസ്റ്റർ കൊണ്ട് മാറ്റിവെക്കാം 12v 0 2mA 60 kΩ ആണ് ഇനി ഇതിൻറെ സ്വിങ് ലിമിറ്റ്സ് പരിശോധിക്കാം സ്വിങ് ലിമിറ്റ്സ് പരിശോധിക്കുന്ന രീതി എപ്പോഴും ഒന്നു തന്നെയാണ് ആദ്യം ടോട്ടൽ ക്വാണ്ടിറ്റീസ് VGS VDS ID കണക്കാക്കുക ടോട്ടൽ കണ്ടുപിടിക്കാനായി ഓപ്പറേറ്റിങ് പോയിൻറ് ഇൻക്രിമെൻറ് എന്നിവ കൂട്ടേണ്ടതുണ്ട് ഇൻക്രിമെൻറ് സ്മാൾ സിഗ്നൽ ലീനിയർ അനാലിസിസിൽ നിന്നാണ് വരുന്നത് ഇവിടെയാണ് അപ്രോക്സിമേഷൻ വരുന്നത് ഇതാണ് അപ്രോക്സിമേറ്റ് ഭാഗം പക്ഷേ ഇത് പ്രശ്നമില്ല അതിനുശേഷം ട്രാൻസിസ്റ്റർ ട്രയോഡ് റീജിയണിലേക്കോ കട്ടോഫ് റീജിയണിലേക്കോ പോകുന്നത് തടയാനായിട്ടുള്ള കണ്ടീഷൻ പ്രയോഗിക്കാം കട്ട് ഓഫിനായി നാം എപ്പോഴും ഗേറ്റ് സോഴ്സ് വോൾട്ടേജിനു പകരം ഡ്രയിൻ കറൻറ് ആസ്പദമാക്കിയുള്ള ക്രൈറ്റീരിയൻ ആണ് ഉപയോഗിക്കുന്നത് ഇനി ട്രാൻസിസ്റ്റർ ട്രയോഡ് റീജിയണിലേക്ക് പോകുന്ന കണ്ടീഷൻ കണക്കാക്കിയാൽ ഒന്നുകിൽ VDS VGS ലിൻറെ ടേംസിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ വെറുതെ ഡ്രയിൻ ഗേറ്റ് വോൾട്ടേജസ് ഉപയോഗിക്കാം ഇത് മുൻപും ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ തീർച്ചയായും നിങ്ങൾ ടോട്ടൽ വോൾട്ടേജസ് ഉപയോഗിക്കണം കോഷ്യൻറ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻക്രിമെൻറൽ വോൾട്ടേജ് മാത്രമല്ല ഇതിൽ ഒന്ന് ചില കേസിലും മറ്റേത് മറ്റു ചില കേസിലും സൌകര്യപ്രദമാണ് ഈ സർക്യൂട്ടിനു വേണ്ടി ചെയ്തു നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്പറേറ്റിങ് പോയിൻറ് കണ്ടെത്താനും സ്മാൾ സിഗ്നൽ പിക്ചർ എഴുതാനും സ്മാൾ സിഗ്നൽ ഇൻക്രിമെൻറൽ സർക്യൂട്ട്സ് കണ്ടുപിടിക്കാനും അനായാസമായി സാധിക്കണം അതിനാൽ ഞാൻ വേഗത്തിൽ അതിൽ ചില ഭാഗങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ട് സ്വിങ് ലിമിറ്റിൻറെ യഥാർത്ഥ കണക്കുകൂട്ടലിൽ സമയം ചെലവഴിക്കാം കൂടാതെ നാം ഒരേ ട്രാൻസിസ്റ്റർ പാരാമീറ്റർസ് കൂടിയാണ് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ പതിവായ ട്രാൻസിസ്റ്റർ പാരാമീറ്റർസ് ആയ µncox 10 µAV2 കൂടെ VT 1V WL 1 ഇവയാണ് ഉപയോഗിക്കുന്നത് എന്നുവരെ ഞാൻ പറഞ്ഞിരുന്നില്ല അതിനാലാണ് 200 µA കറൻറിനു ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് 3V ഉള്ളത് ഇത് 60 kΩ ആണ് ലോഡ് 40 kΩ ആണ് ഇവ വലിയ എസി കപ്ലിങ് കപ്പാസിറ്റർസ് ആണ് എന്നാൽ ഓപ്പറേറ്റിംഗ് പോയിൻറ് VGS0 3 v ID0 200 µA ആണ് VDS0 അതായത് കോഷ്യൻറ് വോൾട്ടേജ് 3V തന്നെയാണ് കാരണം ഇതിലൂടെ കറണ്ട് ഒഴുകുന്നില്ല ഇനി സിഗ്നൽ ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ Rs 100 kΩ ആണെന്ന് കരുതാം vi എന്താണ് എന്നുള്ളത് അത്ര കാര്യമാക്കേണ്ടതില്ല ട്രാൻസിസ്റ്ററിൽ ഗേറ്റ് ഡ്രയിൻ സോഴ്സ് എന്നിവയുണ്ട് ഇവിടെ ബയാസിങിനു ഉപയോഗിക്കുന്ന 60 kΩ റെസിസ്റ്റർ ഉണ്ട് 40 kΩ ലോഡ് റെസിസ്റ്റർ ആണ് ഇത് vGS ഇത് gmvGS എന്നിങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പോയിൻറിലെ gm 200 µS ആണ് RG റെസിസ്റ്ററിൻറെ വാല്യു വളരെ വലുതായാണ് നാം തെരഞ്ഞെടുത്തിരിക്കുന്നത് അതിനാൽ ഇത് അവഗണിക്കാം ഇത് മറ്റ് കണക്കുകൂട്ടലുകളിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല ഇത് ഒരു ഓപ്പൺ സർക്യൂട്ടിനു തുല്യമാണ് 20 MΩ ഞാൻ എഴുതിയ ഒരു വാല്യൂ ആണ് ഇത് വളരെ കൂടുതൽ ആയിട്ടുള്ള 50 KΩ പോലെ ഒരു വാല്യൂ ആയി നിങ്ങൾക്ക് എടുക്കാം ഇനി 60 40 kΩ എന്നിവയുടെ പാരലൽ കോമ്പിനേഷൻ 24 kΩ ആണ് ഇതിൽ നിന്നും ഇൻക്രിമെൻറൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് vi ആണെന്നു കാണാൻ സാധിക്കും കാരണം ഗേറ്റിലേക്ക് കറൻറ് ഒഴുകുന്നില്ല കൂടാതെ RG വളരെ വലുതായത് കാരണം ഇതിലേക്കും കറൻറ് ഒഴുകുന്നില്ല vi എല്ലാ കോമൺ സോഴ്സ് ആംപ്ലിഫയറിലേതുപോലെ ഇവിടെ ആയിരിക്കും എന്ന് ഞാൻ ഊഹിക്കുന്നു ഇൻക്രിമെൻറൽ ഡ്രയിൻ സോഴ്സ് വോൾട്ടേജ് gmRD ║ RL vi ഇത് gmRD ║ RL vi ഈ പ്രത്യേക കേസിൽ ഇത് 4 8 vi ആണ് ഈ പ്രൊഡക്ട് 4 8 ആണ് vi പൂജ്യത്തിന് തുല്യം ആകുമ്പോൾ ഓപ്പറേറ്റിംഗ് പോയൻറ് കണ്ടീഷൻസ് ലഭിക്കുന്നു ഈ ചിത്രത്തിൽ നിന്നും നമുക്ക് ഇൻക്രിമെൻറൽ ക്വാണ്ടിറ്റിസ് ലഭിക്കുന്നു അതിനാൽ ഈ ഓപ്പറേറ്റിംഗ് പോയൻറ് ക്വാണ്ടിറ്റി അതിന് യോജിച്ച ഇൻക്രിമെൻറൽ ക്വാണ്ടിറ്റിയോട് കൂട്ടുക അതിനാൽ ടോട്ടൽ ക്വാണ്ടിറ്റിസ് VGS ഓപ്പറേറ്റിംഗ് പോയൻറ് ഭാഗം പ്ലസ് vi ആയിരിക്കും VDS ഓപ്പറേറ്റിംഗ് പോയൻറ് ഭാഗം 4 8 vi ആണ് അതായത് ഇതിൻറെ ഇൻക്രിമെൻറൽ ഭാഗം ID എന്നിവ 200 µA 200 µS vi ആണ് ഇനി ട്രാൻസിസ്റ്റർ M1 ട്രയോഡ് റീജിയണിലേക്ക് പോകുന്നത് തടയാൻ ആയുള്ള കണ്ടീഷൻ VDS ≥ VGS VT ആണ് ഇത് മുൻപത്തേതുമായി കൃത്യമായി തുല്യമാണ് നാം കോമൺ സോഴ്സ് ആംപ്ലിഫയറിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ എന്താണ് ഇവിടെയുള്ളത് VDS എന്നത് VDS0 gmRD ║ RL vi ആണ് ഇതു VGS നെക്കാളും കൂടുതലായിരിക്കണം അതായത് VGS0 vi VT അതിനാൽ പതിവുപോലെ vi എന്നത് VDS0 VGS0 എന്നതിനേക്കാളും കുറവായിരിക്കണം ഇതാണ് ക്വിസൻറ് ഡ്രയിൻ ഗേറ്റ് വോൾട്ടേജ് ഓപ്പറേറ്റിംഗ് പോയൻറിൽ ഡ്രയിൻ ഗേറ്റിന് എത്ര മുകളിലാണ് പ്ലസ് VT അതായത് ഡ്രയിൻ ഗേറ്റിനെക്കാൾ ഒരു VT താഴെയാകാൻ സാധിക്കും പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആകാൻ സാധിക്കില്ല ഇത് 1 gmRD ║ RL എന്നതിനെ കൊണ്ട് ഹരിക്കുക ഗേറ്റ് മുകളിലേക്ക് പോകുന്നു ഡ്രയിൻ താഴേക്ക് വരുന്നു അതിനാൽ ഡിനോമിനേറ്ററിൽ ഇത് ഉണ്ട് VDS0 VGS0 എന്നിവ ഒന്നുതന്നെയാണ് യഥാർത്ഥത്തിൽ ഡ്രയിൻ ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്ന കോൺഫിഗറേഷൻറെ ഒരു അസൌകര്യം ആണ് ഇത് കാരണം ക്വിസൻറ് ഡ്രയിൻ ഗേറ്റ് വോൾട്ടേജ് ഗേറ്റ് വോൾട്ടേജ് എന്നിവ പരസ്പരം ഒരുപോലെ ആയിരിക്കും ഇതിനർത്ഥം ട്രയോഡ് റീജിയണിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഗേറ്റ് വോൾട്ടേജ് വളരെ അധികം ഉയരാനോ ഡ്രയിൻ വോൾട്ടേജ് വളരെയധികം താഴാനോ സാധ്യതയില്ല വ്യത്യസ്തമായ ഒരു ബയാസിംഗ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബയാസിംഗ് പരിഷ്കരിക്കാൻ സാധിച്ചാൽ ഈ ഗേറ്റ് വോൾട്ടേജ് ക്വിസൻറ് കണ്ടീഷനിൽ വളരെ മുകളിൽ ആകാൻ സാധിക്കും സ്വിങ് ലിമിറ്റ് വളരെയധികം ആയിരിക്കും കാരണം ഗേറ്റ് വോൾട്ടേജ് വളരെ അധികം വർദ്ധിക്കാവുന്നതാണ് ട്രാൻസിസ്റ്റർ ട്രയോഡ് റീജിയണിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഡ്രയിൻ വോൾട്ടേജ് വളരെ കുറയും So any way in this case VDS0 VGS0 3v and VT 1v So vi has to be below 0 17 volts എന്തായാലും ഈ കേസിൽ VDS0 VGS0 3v VT 1v ആയിരിക്കും 17 വോൾട്ട്സ് എന്നതിനേക്കാൾ താഴെയായിരിക്കണം കട്ടോഫ് തടയാനായി M 1 ൻറെ കട്ടോഫ് ലിമിറ്റ് കണക്കാക്കിയാൽ ID ≥ 0 ആയിരിക്കും മുൻപുള്ള പാഠങ്ങളിൽ പറഞ്ഞതുപോലെ മറ്റൊരു സാധ്യമായ ലിമിറ്റ് VGS ≥ VT ആണ് പക്ഷേ നാം ഇത് ഉപയോഗിക്കുന്നില്ല ഇതാണ് ഉപയോഗിക്കുന്നത് ഇത് അർത്ഥമാക്കുന്നത് ID0 gmvi ≥ 0 അല്ലെങ്കിൽ vi ≥ ID0 gm നമ്മുടെ കേസിൽ ഇത് 200 µA 200 µS 1 V ആണ് അതിനാൽ vi യുടെ ലിമിറ്റ്സ് vi ≤ 0 7 v അതിനാൽ vi പ്ലോട്ട് ചെയ്താൽ ലിമിറ്റ് ഏകദേശം ഇവിടെ ആയിരിക്കും അപ്പർ ലിമിറ്റ് 0 17 വോൾട്ട്സ് ആയിരിക്കും ലോവർ ലിമിറ്റ് 1 V ആയിരിക്കും ഇവയാണ് ലിമിറ്റ്സ് ഈ ലിമിറ്റിന് അകത്തു ഒരു ഏകദേശം അപ്രോക്സിമേഷൻ എടുത്താൽ ഇതൊരു ലീനിയർ ആംപ്ലിഫയർ ആയി പെരുമാറുന്നു ഇൻപുട്ട് ആംപ്ലിറ്റ്യൂഡ് വർദ്ധിക്കുമ്പോൾ നോൺലീനിയർ പ്രൊഡക്റ്റിൻറെ ഡിസ്റ്റോഷൻ മെല്ലെ വർദ്ധിക്കുന്നു കാരണം ലീനിയർ അപ്രോക്സിമേഷനോട് കൂടിയ സ്മാൾ സിഗ്നൽ അല്ലെങ്കിൽ ഇൻക്രിമെൻറൽ അനാലിസിസ് പ്രവർത്തിക്കാതെ ആകുന്നു പക്ഷേ എത്ര സിഗ്നൽ പ്രയോഗിക്കാം എന്നുള്ളതിൻറെ ഒരു ഏകദേശരൂപം ലഭിക്കാനായി സ്വിങ് ലിമിറ്റിന് അകത്ത് ആണെങ്കിൽ ആംപ്ലിഫയർ ലീനിയർ linear ആയി പെരുമാറുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ആവില്ല അതിനാൽ സ്വിങ് ലിമിറ്റിന് അകത്തുള്ള ഏത് സിഗ്നലും ലീനിയർ ആയി പെരുമാറുന്നു പക്ഷേ ഇത് പുറത്തു പോകുന്നുണ്ടെങ്കിൽ വിശ്വാസയോഗ്യമായ ഇൻപുട്ട് സിഗ്നൽ ഉണ്ടാകുകയില്ല അതിനാൽ നിങ്ങൾ ഇത് ഒഴിവാക്കണം ഇനി സിഗ്നൽ സൈനുസോയ്ഡൽ ആണെങ്കിൽ തീർച്ചയായും ഇത് പൂജ്യത്തിന് സിമ്മട്രിക്കൽ ആയിരിക്കണം അതിനുശേഷം 0 17 1 എന്നിവയിൽ ചെറിയ ലിമിറ്റ് ആംപ്ലിറ്റ്യൂഡ് തീരുമാനിക്കും അതിനാൽ സൈനുസോയ്ഡ് ഉണ്ടെങ്കിൽ അത് യോജിപ്പിക്കാൻ ഉള്ള ഒരേയൊരു വഴി ആംപ്ലിറ്റ്യൂഡ് 0 17 അല്ലെങ്കിൽ അതിൽ താഴെ ആവുക എന്നതാണ് പൊതുവേ കാണപ്പെടുന്ന സിമ്മട്രിക്കൽ ലിമിറ്റിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്വിംഗ് ലിമിറ്റ്സ് ക്രമപ്പെടുത്തുക വഴി സിമ്മട്രി ഉണ്ടാക്കാം ഇതുവരെ നമ്മുടെ അനാലിസിസ് എല്ലാം സ്മാൾ സിഗ്നൽ പിക്ചർ കേന്ദ്രീകരിച്ചുള്ളതാണ് പക്ഷേ സ്വിംഗ് ലിമിറ്റ്സ് ഓപ്പറേറ്റിംഗ് പോയിൻറിനെ വളരെയധികം ആശ്രയിക്കുന്നു അതിനാൽ നമുക്ക് പല കാര്യങ്ങളും തെരഞ്ഞെടുക്കാവുന്നതാണ് പല ബയാസിംഗ് ക്വിസൻറ് VDS0 VGS0 എന്നിവയുടെ പല വാല്യൂസ് തുടങ്ങിയവ തെരഞ്ഞെടുക്കാം ഇതുവരെ നാം ക്രമം ഇല്ലാതെയാണ് ഇവ തെരഞ്ഞെടുത്തിരുന്നത് ഇവ സ്വിംഗ് ലിമിറ്റ്സ് സ്ഥാപിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു അതിനാൽ ഒപ്റ്റിമം സ്വിംഗ് ലിമിറ്റ്സ് ലഭിക്കാൻ നാം കൃത്യമായ ബയാസിംഗ് ടെക്നിക് ഉചിതമായ ബയാസിംഗ് സർക്യൂട്ട്സ് കൃത്യമായ ക്വിസൻറ് പാരമീറ്റർസ് എന്നിവ തെരഞ്ഞെടുക്കണം 83 V ഞാൻ ഇത് എഴുതട്ടെ നൽകാൻ കഴിയുന്ന മാക്സിമം സൈൻ വേവിൻറെ ആംപ്ലിറ്റ്യൂഡ് 0 17 V ആണ് ഇനി കട്ട് ഓഫ് ലിമിറ്റ് വളരെ താൽപര്യമുണർത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ ലിമിറ്റ് ഇൻപുട്ട് വോൾട്ടേജ് vi യുടെ ടേംസിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് 17 V ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധ്യമായ ഔട്ട്പുട്ട് സിഗ്നൽ എന്താണെന്ന് അറിയേണ്ടതുണ്ട് ഇങ്ങനെ ഇത് ഇൻപുട്ടിൻറെ വിശ്വാസയോഗ്യമായ ഔട്ട്പുട്ട് ആയിത്തീരുന്നു കൂടാതെ കണ്ടുപിടിക്കാനും വളരെ എളുപ്പമായിത്തീരുന്നു കാരണം സ്മോൾ സിഗ്നൽ ഇൻക്രിമെൻറൽ പിക്ചർ അടിസ്ഥാനമാക്കിയുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ആണ് നാം ഉപയോഗിക്കുന്നത് നമ്മുടെ കേസിൽ V0 4 8vi ആണ് ഇതിൽ നിന്നും 4 8 വോൾട്ടിന് ഇടയിൽ ആയിരിക്കണമെന്ന് നമുക്ക് എഴുതാൻ സാധിക്കും ഇതുകാരണം 1 V 4 8 V അതിനാൽ ഈ ലിമിറ്റ് ഇവിടെ വരുന്നു ഇത് കട്ട് ഓഫ് കാരണമാണ് മറുഭാഗത്ത് 0 7 V 4 8 0 83 V എന്നാണുള്ളത് അതിനാൽ ഔട്ട്പുട്ടിൻറെ ടേംസിൽ ലിമിറ്റ് കണ്ടെത്തിയാൽ ഇതാണ് ലഭിക്കുക ഇത് കട്ട് ഓഫ് കാരണമാണ് ഇത് ട്രയോഡ് കാരണമാണ്